തിരികെ സ്വാഗതം ഇത് ലെക്ച്ചർ നമ്പർ 39 ആണ് ലീനിയർ ആൾജിബ്രയിലെ വെക്റ്റർ സ്പെയ്സ് എന്ന ഒരു സുപ്രധാന വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും മുമ്പത്തെ ലെക്ച്ചറിൽ നിന്ന് നമ്മൾ കണ്ടത് എന്താണെന്ന് ഓർമിക്കാം ഉദാഹരണമായി Ax0 എന്ന ഹോമോജിനിയസ് സമവാക്യ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ സെറ്റ് വളരെ സവിശേഷമായ ഒരു സെറ്റാണ് എന്തുകൊണ്ട് അത് വളരെ സവിശേഷമാണ് കാരണം ഈ സെറ്റിൽ ഇതിനെ Ax 0 എന്ന സമവാക്യത്തിന്റെ എല്ലാ സൊല്യൂഷൻകളും ഉൾക്കൊള്ളുന്ന സെറ്റ് V എന്ന് വിളിക്കാം ഈ സെറ്റിന്റെ രണ്ട് എലെമെന്റുകൾ എന്നിവ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്നും എന്നും പറയാം കാരണം എന്ന് വെക്റ്റർ ഒരു സൊല്യൂഷൻ ആണ് ഉം ഒരു സൊല്യൂഷൻ ആണ് അതിനാൽ ഈ സെറ്റിന്റെ രണ്ട് എലെമെന്റുകൾ എടുക്കുകയും അവ ചേർക്കുകയും ചെയ്താൽ അതായത് നമ്മൾ ഇപ്പോൾ എന്ന് പരിഗണിക്കുകയാണെങ്കിൽ ഇത് Ax 0 എന്ന സമവാക്യത്തിന്റെ സൊല്യൂഷൻ ആയിരിക്കും ലീനിയർ പ്രോപ്പർട്ടി കാരണം നമുക്ക് ഉം പിന്നീട് ഉം മാട്രിക്സ് വെക്റ്റർ പ്രോഡക്റ്റുകൾ ആണ് ഇത് രണ്ടും 0 ഉം ആണ് അതിനാൽ നമ്മൾക്ക് ഈ A000 അതായത് ഒരു സൊല്യൂഷൻ ആണെന്ന് ലഭിക്കുന്നു മാത്രമല്ല ഈ സെറ്റിന്റെ ഏതെങ്കിലും എലമെന്റ് എടുക്കുകയും എന്ന് വിളിക്കുന്ന ഒരു രേഖീയ സംഖ്യയാൽ ഗുണിക്കുകയും ചെയ്താൽ എന്നതും V യിൽ ഉൾപ്പെടും കാരണം x ഒരു സൊല്യൂഷനാണെങ്കിൽ വീണ്ടും ഒരു സൊലൂഷൻ ആണ് കാരണം Aλx എന്നത് λAx എന്നായിരിക്കും ഇതിൽ Ax 0 ഉം നൽകും അതിനാൽ λ 0 എന്നും തുടർന്ന് 0 വെക്റ്ററും ലഭിക്കും അതിനാൽ ഈ സെറ്റിൽ നമ്മൾ കണ്ടത് അത് ഒരു പ്രത്യേക സെറ്റാണ് സെറ്റിന്റെ ഏതെങ്കിലും രണ്ട് എലെമെന്റുകൾ എടുത്ത് അവ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അതും ഈ സെറ്റിലെ ഒരു എലമെന്റ് ആണ് ഈ സെറ്റിന്റെ ഒരു എലമെന്റ്ലേക്ക് നിങ്ങൾ ഒരു രേഖീയ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഈ പുതിയ എലമെന്റ് ഇതേ സെറ്റിന്റെ തന്നെ ഒരു എലമെന്റ് ആണ് അതിനാൽ നമ്മൾ ഈ ദിശയിലേക്ക് പോകുകയാണ് അത്തരം പ്രത്യേക സെറ്റുകളെ നമ്മൾ എന്താണ് വിളിക്കുന്നത് അത് കൃത്യമായി വെക്റ്റർ സ്പെയ്സുകളാണ് അവ ചിത്രത്തിലേക്ക് വരുന്നു അതിനാൽ ഈ വെക്റ്റർ സ്പെയ്സുകൾ ഇവിടെ പ്രത്യേക സെറ്റ് ആണ് അതിനാൽ ഇവിടെ R ന് മേൽ ഒരു വെക്റ്റർ സ്പേസ് നിർവചിക്കേണ്ടതുണ്ട് ഈ R ഇവിടെ കൂടുതൽ സാമാന്യമായിരിക്കാം രേഖീയ സംഖ്യകളെയാണ് നമ്മൾ പരിഗണിച്ചത് ഇത് കോംപ്ലക്സ് സംഖ്യകളുടെ ഒരു സെറ്റ് ആകാം കൂടുതൽ സാധാരണ സന്ദർഭങ്ങളിൽ നമ്മൾ ഫീൽഡ് എന്നാണ് വിളിക്കുക ഇത് ഏത് മേഖലയും ആകാം പക്ഷേ നമ്മൾ അത് വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നില്ല മിക്കപ്പോഴും നമ്മൾ ഈ R ന് മേൽ വെക്റ്റർ സ്പേസ് എടുക്കും കാരണം ഈ സെറ്റ് V1 ഉപയോഗിച്ച് മറ്റൊരു സെറ്റ് ബന്ധിപ്പിച്ചിരിക്കണം ഇവിടെ R എന്ന രേഖീയ സംഖ്യകളുടെ സെറ്റ് ആണ് നമ്മൾ എടുത്തത് വെക്റ്റർ സ്പേസ് V എന്നത് എലെമെന്റുകളുടെ ഒരു സെറ്റ് ആണ് അവയെ വെക്ടറുകൾ എന്ന് വിളിക്കുന്നു ഇവിടെ മറ്റൊരു കാര്യം കൂടി ഈ വെക്റ്റർ സ്പേസ് V യുടെ എലെമെന്റുകളെ വെക്ടറുകൾ എന്ന് വിളിക്കുമെന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ V യിൽ ഏത് തരം എലെമെന്റുകളും അടങ്ങിയിരിക്കാം അവ മാട്രിക്സുകളാകാം മറ്റെന്തെങ്കിലും ആശ്രിത ഫംഗ്ഷനുകളാകാം പക്ഷേ ഈ വിയിലെ മൂലകങ്ങളെ നമ്മൾ വെക്റ്റർ എന്ന് വിളിക്കും ഇവിടെ രണ്ട് ബൈനറി ഓപ്പറേഷനുകളോടു കൂടിയ കുറച്ചുകൂടി പൊതുവായ നിർവചനം ഉണ്ട് അതിനാൽ ഇവിടെ ഈ V എന്ന സെറ്റ് കൂടാതെ നമുക്ക് V വെക്റ്റർ സ്പേസ്ന് മറ്റൊരു സെറ്റ് R ആവശ്യമാണ് അത് നമ്മൾ എടുത്തിട്ടുണ്ട് തുടർന്ന് രണ്ട് ബൈനറി ഓപ്പറേഷനുകൾ ഒന്നിനെ വെക്റ്റർ അഡിഷൻ എന്ന് വിളിക്കുന്നു രണ്ടാമത്തേതിനെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ നമുക്ക് എന്താണ് ഉള്ളത് നമുക്ക് ഈ സെറ്റ് V ഉണ്ട് നമുക്ക് മറ്റൊരു സെറ്റ് ഉണ്ട് അത് ഇവിടെ രേഖീയ സംഖ്യകളുടെ ഒരു കൂട്ടം എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ വെക്റ്റർ അഡിഷൻ ഉണ്ടാകും അത് ഈ സെറ്റ് V ഉപയോഗിച്ച് നിർവചിക്കേണ്ടതുണ്ട് കൂടാതെ നമുക്ക് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അതിനാൽ ഈ വെക്റ്റർ സ്പേസ് നിർവചിക്കുന്നതിന് ഈ നാല് കാര്യങ്ങൾ നമ്മൾ നിർവചിക്കേണ്ടതുണ്ട് ഇവിടെ അവയിലൊന്ന് V മറ്റൊന്ന് രേഖീയ സംഖ്യകളുടെ ഒരു സെറ്റ് അല്ലെങ്കിൽ കോംപ്ലക്സ് സംഖ്യകളുടെ സെറ്റ് രണ്ട് ബീജഗണിത പ്രവർത്തനങ്ങൾ അവയെ നമ്മൾ വെക്റ്റർ അഡിഷൻ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നു ഇവയെല്ലാം ഇവിടെയുണ്ട് എങ്കിൽ എപ്പോൾ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കും താഴെപ്പറയുന്ന നിബന്ധനകൾ ഉണ്ട് എങ്കിൽ നമ്മൾ V യെ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കുന്നു അപ്പോൾ എന്താണ് ഈ നിബന്ധനകൾ ആദ്യത്തേത് ഈ സെറ്റ് V യിൽ നിന്ന് u v എന്നീ രണ്ട് എലെമെന്റുകൾ എടുക്കുകയും അവ ചേർത്താൽ പുതിയ എലെമെന്റുകൾ ഈ സെറ്റ് V യിൽ തന്നെ ഉൾപ്പെടുകയും വേണം ഈ പ്രോപ്പർട്ടിയെ സെറ്റിന്റെ അഡിറ്റീവ് ക്ലോഷർ പ്രോപ്പർട്ടി എന്നു വിളിക്കുന്നു അതായത് നമ്മൾ രണ്ട് എലെമെന്റുകൾ u v എടുത്തു ഈ സെറ്റ് V യിൽ നിർവചിച്ച വെക്റ്റർ അഡിഷൻ നടത്തുക തുടർന്ന് ഈ u v എന്നിവയുടെ അഡിഷൻ V യിൽ തന്നെയായിരിക്കണം മറ്റൊരു പ്രോപ്പർട്ടി എന്ന സ്കേലാർ കൊണ്ട് u നെ ഗുണിക്കുന്നത് അതായത് എന്ന് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നിർബന്ധമായും ഈ സെറ്റ് V യിൽ തന്നെ ഉൾപ്പെടുകയും വേണം ഇവിടെ ഒരു രേഖീയ സംഖ്യആണ് എടുത്തിട്ടുള്ളത് അത് കുറച്ചുകൂടി പൊതുവായ സമ്മിശ്ര കോംപ്ലക്സ് സംഖ്യകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും പക്ഷേ നമ്മൾ ഇവിടെ രേഖീയ സംഖ്യകളുടെ ഗണത്തിൽ പരിമിതപ്പെടുത്തുന്നു ഇത് മറ്റൊരു ക്ലോഷർ പ്രോപ്പർട്ടിയാണ് ഇതിനെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ സംബന്ധിച്ച് ഉള്ള ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത് V യിലെ ഏതൊരു u നും എന്നത് V യിൽ തന്നെ ആയിരിക്കണം ഇവയെ സെറ്റിന്റെ ക്ലോഷർ പ്രോപ്പർട്ടികൾ എന്ന് വിളിക്കുന്നു

നമ്മളുടെ ചർച്ചയിൽ അത്ര പ്രാധാന്യമില്ലാത്ത നിരവധി പ്രോപ്പർട്ടികൾ ഉണ്ട് പക്ഷേ നമ്മൾ അവ പൂർണ്ണതയ്ക്കായി പ്രസ്താവിക്കേണ്ടതുണ്ട് കാരണം മിക്ക ഉദാഹരണങ്ങളും ഈ പ്രോപ്പർട്ടികളെല്ലാം നിസ്സാരമായി പിന്തുടരും പക്ഷേ ഈ രണ്ട് ക്ലോഷർ പ്രോപ്പർട്ടികളും ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികളാണ് ഇവിടെ മൂന്നാമത്തേത് u v v u u v∈V ഇതാണ് വെക്റ്ററുകളുടെ കമ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി മറ്റൊന്ന് ഇവിടെ u പ്ലസ് ആദ്യം അതിലേക്ക് നമ്മൾ v w ചേർക്കുന്നു അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഈ u v ചേർക്കുന്നു തുടർന്ന് w അതിലേക്ക് ചേർക്കുന്നു രണ്ട് കേസിലും ഫലം തുല്യമായിരിക്കണം ഇതിനെ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നു വീണ്ടും 0 വെക്റ്ററിന്റെ ഈ എക്സിസ്റ്റെൻസ് നമുക്കുണ്ട് അതിനാൽ 0 വെക്റ്ററിനെ നമ്മൾഎങ്ങനെ നിർവചിക്കും ഈ സെറ്റ് V ൽ ഒരു 0 വെക്റ്റർ ഉണ്ടായിരിക്കണം 0 വെക്റ്റർന്റെ പ്രോപ്പർട്ടി എന്താണ് സെറ്റ് V യുടെ ഏതെങ്കിലും എലെമെൻറ്ലേക്ക് ഈ 0 ചേർത്താൽ ആ എലെമെന്റ് അതേപടി നിലനിൽക്കും അതിനാൽ ഇതിനെ സീറോ വെക്റ്റർ എന്ന് വിളിക്കുന്നു ഇത് V സെറ്റിൽ ഉണ്ടായിരിക്കണം Associativity in s മറ്റൊന്ന് ഓരോ നും അതായത് V സെറ്റിന്റെ ഓരോ എലെമെന്റ്നും u എന്ന് സൂചിപ്പിക്കുന്ന ഒരു വെക്റ്റർ V യിൽ ഉണ്ടായിരിക്കണം u ഇവിടെ ഒരു നൊട്ടേഷൻ മാത്രമാണ് അത് u ൻറെ നെഗറ്റീവ് ആയതിനാൽ ഉം ഉം ചേർക്കുമ്പോൾ V സെറ്റിൽ ഇതിനകം നിലവിലുണ്ടായിരുന്ന സീറോ വെക്റ്റർ നമുക്ക് ലഭിക്കണം ഓരോ u∈V നും V ലെ ഒരു വെക്റ്റർ u u ന്റെ നെഗറ്റീവ് s u u 0 എന്ന് സൂചിപ്പിക്കുന്നു മറ്റൊന്ന് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടി ആണ് നമ്മൾ ഇവിടെ u മായി എന്ന രേഖീയ സംഖ്യ ഉപയോഗിച്ച് ഗുണിക്കുന്നു തുടർന്ന് അത് എന്ന രേഖീയ സംഖ്യയിലേക്ക് ഗുണിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ആദ്യം എന്നീ രേഖീയ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുകയും പിന്നീട് അത് u മായി ഗുണിക്കുകയും ചെയ്യുന്നു രേഖീയ സംഖ്യകളുടെ ഗണത്തിൽ നിന്നുള്ള എല്ലാ നും രണ്ടു കേസിലും ഫലം തുല്യമായിരിക്കണം ഇവിടെ u V ൽ നിന്നുള്ള ഒരു എലെമെന്റ് ആണ് ഇത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ് കൂടാതെ നമുക്ക് എല്ലാ റിയൽ നമ്പർ ക്കും എല്ലാ u v ∈ V എന്നിവയ്ക്കും എന്ന പ്രോപ്പർട്ടി ഉണ്ട് ഇതിനെ ഈ സ്കെയിലറുകളുടെയും വെക്റ്ററുകളുടെയും ഡിസ്ട്രിബ്യൂടീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നു പിന്നെ നമുക്ക് ഈ λ μu ഉണ്ട് ഇത് ന് തുല്യമായിരിക്കണം ഇത് റിയൽ നമ്പറുകളുടെ ഗണത്തിൽ നിന്നുള്ള എല്ലാ എന്നിവയ്ക്കും V യിൽ നിന്നുള്ള എല്ലാ u നും ഹോൾഡ് ചെയ്തിരിക്കണം അതിനാൽ ഇത് വീണ്ടും ഈ സ്കെയിലറുകളുടെയും വെക്റ്ററുകളുടെയും ഡിസ്ട്രിബ്യൂടീവ് പ്രോപ്പർട്ടി ആണ്

അവസാനത്തെ പ്രോപ്പർട്ടി സെറ്റ് V യിൽ നിന്നുള്ള ഓരോ u നും 1 എന്ന സ്കാലാർ ഉണ്ടായിരിക്കണം എങ്ങനെയെന്നാൽ 1 uu എന്നത് ആയിരിക്കണം ഇവിടെ 1 എന്നത് R ലെ ഐഡന്റിറ്റി എലെമെന്റാണ് രേഖീയ സംഖ്യകളുടെ കാര്യത്തിൽ ഇത് 1 എന്ന റിയൽ നമ്പർ ആണ് നിങ്ങൾ u നെ 1 കൊണ്ട് ഗുണിച്ചാൽ ഇത് ഇവിടെയുള്ള സെറ്റിലെ ഓരോ എലെമെന്റിനും നിർവചിക്കേണ്ട സ്കെയിലർ ഗുണനമാണ് ഇത് u ന് തുല്യമായിരിക്കണം ഇത് എല്ലാ അംഗങ്ങൾക്കും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് V യിലെ ഏതൊരു എലമെന്റ് u നും എന്നത് R ലെ ഐഡന്റിറ്റി എലെമെന്റാണ് അതിനാൽ നമ്മൾക്ക് വളരെയധികം പ്രോപ്പർട്ടികൾ ഉണ്ട് എന്നാൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് പ്രോപ്പർട്ടികളാണ് ഇതിൽ പ്രധാനം അവ ക്ലോഷർ പ്രോപ്പർട്ടികളാണ് u v സെറ്റിൽ ഉണ്ടായിരിക്കേണ്ടതും R ലെ എല്ലാ ൾക്കും V യിലെ എല്ലാ u നും ടൈംസ് u സെറ്റ് V ൽ ഉണ്ടായിരിക്കണം ഈ രണ്ട് പ്രോപ്പർട്ടികളും അതോടൊപ്പം മറ്റ് പ്രോപ്പർട്ടികളും അതായത് 0 വെക്റ്ററിന്റെ എക്സിസ്റ്റൻസ് നെഗറ്റീവിറ്റിയുടെ എക്സിസ്റ്റൻസ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി പ്രോപ്പർട്ടി അസ്സോസ്സിയേറ്റിവിറ്റി പ്രോപ്പർട്ടി തുടങ്ങിയവയും ഈ സെറ്റ് V യിൽ ഉണ്ടായിരിക്കണം എങ്കിൽ ഈ സെറ്റിനെ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കുന്നു വെക്റ്റർ സ്പേസ് എന്താണെന്ന് ഇപ്പോൾ നന്നായി മനസ്സിലാക്കുന്ന ചില ഉദാഹരണങ്ങളിലൂടെ കടന്നുപോകുന്നു ഇവിടെ നമ്മൾ പരിഗണിക്കുന്ന ആദ്യത്തെ ഉദാഹരണം ഓവർ R എന്ന വെക്റ്റർ സ്പേസ് ആണ് അതിനാൽ എന്താണ് ഈ ന്റെ എലെമെന്റുകൾ എങ്ങനെ കാണപ്പെടുന്നു ഈ എന്നത് എന്ന രൂപത്തിൽ ഓർഡർ ചെയ്ത എല്ലാ n ടപ്പിളുകളുടെയും n tuples tuple means a finite list of elements ഒരു സെറ്റാണ് ഇവയെല്ലാം രേഖീയ സംഖ്യയിൽ നിന്നുള്ളതാണ് ഈ ന്റെ എല്ലാ എലെമെന്റുകൾക്കും n കംപോണന്റുകൾ ഉണ്ടാകും ഇവിടെ ഈ വെക്റ്റർ അഡിഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും നമ്മൾ നിർവചിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ നമ്മൾ പരിഗണിക്കുന്ന സെറ്റ് ഈ വെക്റ്റർ അഡിഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട വെക്റ്റർ സ്പേസ് ആണെന്ന് പറയാൻ കഴിയുകയുള്ളൂ നമ്മൾ റിയൽ നമ്പറുകളുടെ സെറ്റ് R പരിഗണിക്കുന്നു ഇവിടെ വെക്റ്റർ അഡിഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും പതിവുപോലെ നിർവചിക്കപ്പെടുന്നു V ൽ നിന്ന് ഈ രണ്ട് ഘടകങ്ങളും ഇവിടെ എടുത്ത് അവ ചേർക്കുമ്പോൾ പുതിയ എലമെന്റ് ഇവിടെ ഘടകങ്ങളുടെ തിരിച്ചുള്ള കൂട്ടിച്ചേർക്കൽ മാത്രമായിരിക്കും അതായത് കംപോണന്റ് വൈസ് അഡിഷൻ ഇവിടെ ഉപയോഗിക്കുന്നു ഈ പ്രത്യേക കേസിൽ അഡിഷൻ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് കൂടാതെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ എന്ന സ്കാലർ കൊണ്ട് നേ ഗുണിച്ചാൽ അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന പുതിയ എലമെന്റ് ഈ എലമെന്റിന്റെ ഓരോ കമ്പോണന്റിനും ഈ യുടെ ഗുണനം മാത്രമായിരിക്കും

ഈ സെറ്റിനായി വെക്റ്റർ അഡിഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ രണ്ട് ക്ലോഷർ പ്രോപ്പർട്ടികൾ നമുക്ക് ഇപ്പോൾ എളുപ്പത്തിൽ നിരീക്ഷിക്കാൻ കഴിയും മറ്റുള്ളവയെല്ലാം ഈ കേസിൽ വീണ്ടും ലളിതമാണ് ഉദാഹരണത്തിന് എല്ലാ കമ്പോണന്റും പൂജ്യം ആയിരിക്കുമ്പോൾ 0 എലമെന്റ് ആയിരിക്കും നമ്മൾ ഓരോന്നിനും മുന്നിൽ മൈനസ് ചിഹ്നം ഇടുകയാണെങ്കിൽ നെഗറ്റീവ് എലെമെന്റുകൾ ആയിരിക്കും അത് ഒരു നിശ്ചിത എലമെന്റ്ന്റെ നെഗറ്റീവ് ഘടകമായിരിക്കും അതിനാൽ എക്സിസ്റ്റൻസ് പ്രോപ്പർട്ടികൾ കമ്മ്യൂട്ടിവിറ്റി പ്രോപ്പർട്ടി മുതലായവ എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയും ഇവിടെ വീണ്ടും ക്ലോഷർ പ്രോപ്പർട്ടികൾ പ്രധാനമാണ് അതിനാൽ ഇവിടെ രണ്ട് എലെമെന്റുകൾ ചേർക്കുമ്പോൾ നമുക്ക് ഒരു പുതിയ എലെമെന്റു ലഭിക്കുന്നു അതും ഈ ൽ ഉൾപ്പെടുന്നു കാരണം ഇത് വീണ്ടും ലെ ഒരു എലമെന്റ് ആണ് അതിനാൽ വെക്റ്റർ അഡിഷനുമായി ബന്ധപ്പെട്ട ഈ ക്ലോഷർ പ്രോപ്പർട്ടി തൃപ്തികരമാണ് ഒപ്പം സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും അതിനാൽ ഇവിടെയുള്ള എന്ന പുതിയ എലമെന്റ് ഇവിടെ ഈ സെറ്റിലേതു തന്നെയാണ് അതിനാൽ രണ്ട് ക്ലോഷർ പ്രോപ്പർട്ടികളും സംതൃപ്തമാണ് മറ്റെല്ലാ പ്രോപ്പർട്ടികളും അവ തൃപ്തികരമാണോ എന്ന് എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയും അതിനാൽ സെറ്റ് ഒരു വെക്റ്റർ സ്പേസ് ആണ് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം കൂടാതെ നമുക്ക് ഇവിടെ ഏതെങ്കിലും പൂർണ്ണസംഖ്യകൾ എടുക്കാം അതിനാൽ R ഓവർ R ഒരു വെക്റ്റർ സ്പേസ് ആണ് ഓവർ R ഒരു വെക്റ്റർ സ്പേസ് തുടങ്ങിയവയാണ് ഉദാഹരണത്തിന് നമ്മളിവിടെ എടുക്കുന്നു ഇതും R ന് മേലുള്ള വെക്റ്റർ സ്പേസ് കൂടിയാണ് ഇപ്പോൾ ഇവിടെ അടുത്ത ഉദാഹരണത്തിലേക്ക് പോകുന്നത് പോളിനോമിയൽ സ്പേസ് പരിഗണിക്കും ഇവിടെ R ന് മേലുള്ള ഈ Pn വീണ്ടും പരിഗണിക്കുന്നു ഇവിടെ നമ്മൾ ഒരു കൂട്ടം രേഖീയ സംഖ്യകളിലേക്ക് പരിമിതപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ Pn ന്റെ എലെമെന്റുകൾ എങ്ങനെ കാണപ്പെടും Pn എന്നത് n നേക്കാൾ കുറവോ തുല്യമോ ഡിഗ്രിയുള്ള എല്ലാ പോളിനോമിയലുകളുടെയും ഗണത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ എല്ലാ പോളിനോമിയലും ഇത് n നേക്കാൾ കുറവോ തുല്യമോ ആയ ഡിഗ്രിയുടെ എല്ലാ പോളിനോമിയലുകളുടെയും ഒരു കൂട്ടമാണ് കൂടാതെ ഈ പോളിനോമിയലുകൾ ഇത്തരത്തിലുള്ളവയെന്നപോലെ കാണപ്പെടുന്നു ഇത് ഡിഗ്രി s നെക്കാൾ കുറവോ തുല്യമോ ആണ് അത്തരം എല്ലാ പോളിനോമിയലുകളുടെയും ഗണത്തെക്കുറിച്ച് ആണ് നമ്മൾ സംസാരിക്കുന്നത് where and അതിനാൽ ഇവിടെ കോൺസ്റ്റന്റുകൾ ഇതിന്റെ ഭാഗമാണ് ലീനിയർ പോളിനോമിയൽ ഇതിന്റെതാണ് ക്വാഡ്രാറ്റിക് അങ്ങനെ അങ്ങനെ ഇവിടെ n നെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നൽകിയിരിക്കുന്ന n ന് കുറവോ തുല്യമോ ആയ ഡിഗ്രിയുടെ എല്ലാ പോളിനോമിയലുകളുടെയും ഒരു കൂട്ടമാണിത് ഇവയെല്ലാം ഇവിടെ രേഖീയ സംഖ്യകൾ മാത്രമാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് പോളിനോമിയലുകൾ ഉള്ളപ്പോൾ നമ്മുടെ വെക്റ്ററുകൾ ഈ പോളിനോമിയലുകളാണ് ഇപ്പോൾ വീണ്ടും ഇവിടെയുള്ള പ്രോപ്പർട്ടികൾ പരിശോധിച്ചാൽ എന്നാൽ ക്ലോഷർ പ്രോപ്പർട്ടികൾ തൃപ്തികരമാണ് കാരണം ഈ സെറ്റിൽ നിന്ന് രണ്ട് എലെമെന്റുകൾ എടുക്കുകയാണെങ്കിൽ അതിനാൽ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ p1 എന്ന് വിളിക്കുന്ന ഒരു എലെമെന്റു പോലെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ വീണ്ടും a കൾ ഉപയോഗിച്ചു സൂചിപ്പിക്കാൻ കഴിയും അതിനാൽ ഇത് ഒരു എലെമെന്റു ആണ് ഞാൻ ഇത് n എടുക്കാം അതിനാൽ t power n ഇത് നമ്മൾ സംസാരിക്കുന്ന പോളിനോമിയൽ സ്പേസ് എന്ന ഈ സെറ്റിന്റെ ഒരു എലെമെന്റു ആണ് ഈ കൊണ്ട് എനിക്ക് സൂചിപ്പിക്കാൻ കഴിയുന്ന മറ്റൊന്ന് ഇപ്പോൾ എടുക്കാം ഇവിടെ ഡിഗ്രി n ആകാം അല്ലെങ്കിൽ അത് n നേക്കാൾ കുറവായിരിക്കാം അതിനാൽ എന്നിവ ഒരേ സെറ്റിൽ നിന്നുള്ള രണ്ട് എലെമെന്റുകളാണ് നമ്മൾ ഇവ രണ്ടും ചേർക്കുമ്പോൾ അതായത് കാണുമ്പോൾ ഈ സെറ്റിൽ അഡിഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു അത് അനുബന്ധ ഗുണകങ്ങളെ ഇവിടെ ചേർത്ത് എഴുതുന്നത് ആണ് അതിനാൽ ഇവ കോൺസ്റ്റന്റുകളായിരുന്നു ഒപ്പം t നൊപ്പം ഈ നമുക്ക് ഉണ്ട് നൊപ്പം ഈ ഉണ്ടാകും അങ്ങനെ നൊപ്പം ഈ ഉണ്ടാകും അതിനാൽ ഈ കൂട്ടിച്ചേർക്കലിനുശേഷം ഇപ്പോൾ ഇത് പുതിയ പോളിനോമിയലാണ് എന്നാൽ സ്വാഭാവികമായും ഉം ഉം R ലെ എലെമെന്റുകൾ ആയതിനാൽ സമാനമായി ഈ ഉം R ലെ എലെമെന്റു ആയിരിക്കും അതുപോലെ ഉം R ലെ തന്നെ എലെമെന്റു ആയിരിക്കും അതിനാൽ ഇവിടെ ഇത് ഒരു പുതിയ പോളിനോമിയലാണ് ഇത് വീണ്ടും ഈ സെറ്റ് ഈ Pn യിൽ ഉൾക്കൊള്ളുന്നു അതിനാൽ ഇത് ഇപ്പോൾ ഞാൻ അർത്ഥമാക്കുന്നത് ഇവിടെ കൂട്ടിച്ചേർക്കലുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് ഈ ക്ലോഷർ പ്രോപ്പർട്ടി കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ സെറ്റ് Pn ൽ നിന്ന് നമ്മൾ ഈ p എടുക്കുമ്പോഴും നിങ്ങൾ ഇവിടെ ഏതെങ്കിലും സ്കെയിലർ ലാംഡ കൊണ്ട് ഗുണിച്ചാൽ എന്ത് സംഭവിക്കും ലാംഡയെ ഈ a0 ലേക്ക് ഗുണിക്കും ലാംഡയെ a1 ലേക്ക് ഗുണിക്കും ലാംഡയെ ഇതുപോലെ ഗുണിക്കും കൂടാതെ ഈ പുതിയ പോളിനോമിയൽ വീണ്ടും ഈ Pn ന്റെ ഒരു എലമെന്റ് യിരിക്കും അതിനാൽ ഈ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് വീണ്ടും ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട് അഡിഷൻമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട് കൂടാതെ ഈ അഡിഷൻ ഈ രീതിയിൽ നിർവചിക്കപ്പെടുന്നു ഈ സെറ്റിനായി മൾട്ടിപ്ലിക്കേഷൻ ഈ രീതിയിൽ നിർവചിച്ചിരിക്കുന്നു അതിനാൽ ഈ പോളിനോമിയൽ സ്പേസ് ഓവർ എന്നത് ഈ ഉദാഹരണത്തിൽ നമ്മൾ കണ്ട ഒരു വെക്റ്റർ സ്പേസ് ആണ് അടുത്തത് നമ്മൾ സംസാരിക്കുന്നത് എന്ന മാട്രിക്സ് സ്പേസ്നെക്കുറിച്ചാണ് ഈ സാഹചര്യത്തിൽ ഇത് വീണ്ടും ഒരു മാട്രിക്സ് സ്പേസ് ആയതിനാൽ ഇത് ഒരു വെക്റ്റർ സ്പേസ് ആണ് കാരണം m n എന്നിവയുടെ രണ്ട് മെട്രിക്സുകൾ എടുക്കുകയാണെങ്കിൽ അതിനാൽ ലളിതവൽക്കരിക്കാൻ ആയി ഈ 2 ബൈ 3 മെട്രിക്സുകൾ നമുക്ക് പരിഗണിക്കാം അതിനാൽ 2 ബൈ 3 മെട്രിക്സുകൾക്കായി നമ്മൾ a b c പോലുള്ള ഒരു എലിമെൻറ് എടുത്തിട്ടുണ്ട് തുടർന്ന് d e f ഇതാണ് ഈ സെറ്റിൽ നിന്ന് നമ്മൾ എടുത്ത ഒരു എലിമെൻറ് ഈ സെറ്റിന്റെ മറ്റൊരു എലിമെൻറ് നമ്മൾ സൂചിപ്പിക്കുന്നു ഇവ രണ്ട് ഉദാഹരണങ്ങളാണ് ഓർഡർ ആയ എല്ലാ മെട്രിക്സുകളുടെയും സെറ്റിൽ നിന്ന് എടുത്ത ഉദാഹരണങ്ങൾ അതിനാൽ ഈ രണ്ട് മാട്രിക്സും a b എന്നിവ ചേർക്കുമ്പോൾ നമുക്ക് രണ്ട് ഫലം വീണ്ടും ഈ ഓർഡർ 2 × 3 ന്റെ മാട്രിക്സ് ആയിരിക്കും കൂടാതെ നമ്മൾ ഈ എലെമെന്റുകൾ ഇവിടെ a1a2 a2b2 തുടങ്ങിയവ ചേർന്ന് ഇത് വീണ്ടും ഓർഡർ 2 × 3 ന്റെ ഒരു മാട്രിക്സ് ആയിരിക്കും മാത്രമല്ല ഇത് നമ്മൾ സംസാരിക്കുന്ന രേഖീയ സംഖ്യകളുടെ R സെറ്റിന് മേലാണ് അതിനാൽ ഇവിടെ ഇവയെല്ലാം രേഖീയ സംഖ്യകളാണ് അവ ചേർക്കുമ്പോൾ അവ രേഖീയ സംഖ്യയും പുതിയ മാട്രിക്സും ഇവിടെ ഈ സെറ്റിന്റെ ഭാഗമാകും കൂടാതെ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഈ സെറ്റിലെ ഏതെങ്കിലും അംഗത്തെ നമ്മൾ കൊണ്ട് ഗുണിച്ചാൽ അതായത് പുതിയ മാട്രിക്സ്ൽ ഓരോ എലമെന്റ്ഉം വീണ്ടും ഗുണിക്കപ്പെടും ഈ പുതിയ മാട്രിക്സ് ഇവിടെ ഈ സെറ്റിലെ അംഗമായിരിക്കും അതിനാൽ ഈ m × n ഓർഡറിന്റെ ഈ മാട്രിക്സ് സ്പെയ്സുകളും ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന് നമ്മൾകണ്ടു രേഖീയ സമവാക്യങ്ങളുടെ സിസ്റ്റത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമായ മറ്റൊരു ഉദാഹരണം ഈ Ax0 എന്ന സിസ്റ്റത്തിന്റെ സൊല്യൂഷൻഉകൾ ഇത് ഒരു വെക്റ്റർ സ്പേസ് ഉണ്ടാക്കുന്നു അത് എങ്ങനെ ഒരു വെക്റ്റർ സ്പേസ് ഉണ്ടാക്കുന്നു നമ്മൾഈ സെറ്റ് V ഇവിടെ ഈ സെറ്റിനെക്കുറിച്ചു മാത്രം ഇന്നത്തെ ലെക്ച്ചറിന്റെ തുടക്കത്തിൽ തന്നെ ചർച്ചചെയ്തു ഇതിനെ നൾ സ്പേസ് എന്ന് വിളിക്കുന്നു മുമ്പ് ചർച്ചചെയ്തിട്ടുണ്ട് കാരണം ഇവിടെയും ക്ലോഷർ പ്രോപ്പർട്ടികൾ തൃപ്തിപ്പെടുകയും എലെമെന്റുകൾ ൽ നിന്നുള്ളതുമാണ് നമ്മൾ ഇതിനകം കണ്ട ഒരു വെക്റ്റർ സ്പേസ് ആണ് അതിനാൽ ഈ V യുടെ ഈ എലെമെന്റുകൾ ന്റെയും ഒരു വെക്റ്റർ സ്പേസും ആണ് അതിനാൽ സ്വാഭാവികമായും നമ്മൾ ചർച്ച ചെയ്ത ഡിസ്ട്രിബുറ്റിവിറ്റി കമ്മ്യൂറ്റേറ്റിവിറ്റി തുടങ്ങിയ എല്ലാ പ്രോപ്പർട്ടികളും അവ സ്വപ്രേരിതമായി സംതൃപ്തരാണ് കമ്മ്യൂട്ടിവിറ്റി എല്ലാം ഇവിടെ സാധുവാണ് കാരണം ഈ എലെമെന്റുകൾ ൽ നിന്നുള്ളതാണ് ഒരു വെക്റ്റർ സ്പേസ് ആണ് കൂടാതെ ക്ലോഷർ പ്രോപ്പർട്ടിക്കുറിച്ചു ഇവിടെ നിന്ന് x1 x2 എന്നീ രണ്ട് എലെമെന്റുകൾ എടുക്കുമ്പോഴെല്ലാം സ്വാഭാവികമായും x1 x2 എന്ന തുക ഒരു സൊലൂഷൻ ആയിരിക്കും A x1 x2 Ax1 Ax20 ആയിരിക്കും കൂടാതെ ഏതൊരു എലെമെന്റുനെയും കൊണ്ട് ഗുണിക്കാം അതായത് Aλx1 അല്ലെങ്കിൽ Aλx2 രണ്ടും 0 ആയിരിക്കും നമുക്ക് വലതുവശത്ത് 0 ഉള്ളപ്പോൾ ഹോമോജിനിയസ് സിസ്റ്റത്തിന് ഇത് പ്രത്യേകമാണ് നമുക്ക് ഈ വലതുവശത്ത് 0 ഇല്ലെങ്കിൽ ഇത് ഒരു നോൺഹോമോജിനിയസ് സിസ്റ്റമാണെങ്കിൽ ഈ രണ്ട് പ്രോപ്പർട്ടികളും നമ്മൾക്ക് ഇല്ല നോൺഹോമോജിനിയസ് സമവാക്യങ്ങളുടെ സൊലൂഷന് സാധുതയുണ്ട് അതിനാൽ സമവാക്യങ്ങളുടെ ഹോമോജിനിയസ് സിസ്റ്റത്തിന് സൊലൂഷൻ സെറ്റ് ഒരു വെക്റ്റർ സ്പേസ് ആണ് ഈ വെക്റ്റർ സ്പെയ്സിന് ഒരു പ്രത്യേക പേര് ഉണ്ട് അതിനെ നമ്മൾനൾ സ്പേസ് എന്ന് വിളിക്കുന്നു അതാണ് ഈ സ്പേസ് ചിത്രത്തിലേക്ക് വരുന്നത് അതിനാൽ ഇതിനെ മാട്രിക്സ് എയുടെ നൾ സ്പേസ് എന്ന് വിളിക്കുന്നു ഈ സെറ്റ് V എന്നത് ന്റെ സബ്സെറ്റാണ് ഇത് ഒരു വെക്റ്റർ സ്പേസ് ഉണ്ടാക്കുന്നു അതിനാൽ ഇതിനെ വെക്റ്റർ സബ്സ്പേസ് എന്നും വിളിക്കുന്നു അതിനാൽ ഈ വെക്റ്റർ സബ്സ്പേസ്കൾ എന്തൊക്കെയാണെന്ന് നമ്മൾഉടൻ തന്നെ സംസാരിക്കും ഇത് വെക്റ്റർ സബ്സ്പേസ് ആണ് കാരണം ഇത് ഒരു വെക്റ്റർ സ്പേസ് ആണ് ഇത് മറ്റൊരു വെക്റ്റർ സ്പേസ് ന്റെ സബ്സെറ്റാണ് അതിനാൽ നമ്മൾ ഇതിനെ വെക്റ്റർ സബ്സ്പേസ് എന്ന് വിളിക്കുന്നു ഇവിടെ വീണ്ടും എന്താണ് സബ് സ്പേസുകൾ V ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കട്ടെ W ഒരു സബ് സെറ്റായിരിക്കട്ടെ അതിനാൽ V ഒരു വെക്റ്റർ സ്പെയ്സും W എന്നത് V യുടെ മറ്റൊരു സബ് സെറ്റും ആണ് കൂടാതെ W ഉം ഒരു വെക്റ്റർ സ്പേസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഒരു സബ് സ്പേസ് എന്ന് വിളിക്കുന്നു വെക്റ്റർ സ്പേസ് V ൽ നമ്മൾ ചെയ്യുന്ന അതേ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രേഖീയ സംഖ്യകളുടെ ഗണത്തിന് മുകളിലുള്ള ഒരു വെക്റ്റർ സ്പേസ് ആണെങ്കിൽ ഈ W നെ വെക്റ്റർ സബ് സ്പേസ് എന്ന് വിളിക്കുന്നു ഓരോ u v∈W ∈R എന്നിവയ്ക്കും ഇനിപ്പറയുന്ന ക്ലോഷർ പ്രോപ്പർട്ടികൾ ഉണ്ടായിരിക്കണം u v∈W u∈W സബ് സ്പേസ് തിരിച്ചറിയുന്നതിനുള്ള മാനദണ്ഡം ഇപ്പോൾ വളരെ എളുപ്പമാണ് കൂടാതെ വെക്റ്റർ സ്പേസ് നിർവചിക്കുന്നതിനായി നമ്മൾചർച്ച ചെയ്ത എല്ലാ പ്രോപ്പർട്ടികളെക്കുറിച്ചും നമ്മൾ വിഷമിക്കേണ്ടതില്ല ഇവിടെ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടികളെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ കാരണം അവ ഇപ്പോൾ പ്രധാനപ്പെട്ടവയാണ് മറ്റുള്ളവയെല്ലാം ലളിതമായി സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും അതിനാൽ അടിസ്ഥാനപരമായി തന്നിരിക്കുന്ന ഒരു സബ് സെറ്റ് ഒരു വെക്റ്റർ സ്പേസ് ആണോ എന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ ക്ലോഷർ പ്രോപ്പർട്ടികൾ പരിശോധിക്കേണ്ടതുണ്ട് രണ്ട് എലെമെന്റുകൾ എടുക്കുന്നു ഈ രണ്ടിന്റെ കൂട്ടിച്ചേർക്കൽ ഈ സബ് സെറ്റിലേതായിരിക്കണം കൂടാതെ ഈ സബ് സെറ്റിലേതായിരിക്കണം തന്നിരിക്കുന്ന സെറ്റ് ഒരു സബ് സ്പേസ് ആണെന്ന് പരിശോധിക്കാൻ ഇത് മതിയാകും അതിനാൽ നിസ്സാരമായ സബ്സ്പേസുകൾ എന്തൊക്കെയാണ് ഇവിടെ 0 എന്ന സെറ്റ് തന്നെ സബ്സ്പേസുകളുടെ ഒരു ഉദാഹരണം ആണ് അതിനാൽ ഒരു വെക്റ്റർ സ്പേസിന്റെ 0 എലെമെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ക്ലോഷർ പ്രോപ്പർട്ടികൾ കാരണം ഒരു വെക്റ്റർ സ്പേസ് ആകും ഉദാഹരണത്തിന് നിങ്ങൾ 0 എന്ന എലെമെന്റ് എടുത്ത് 0 ലേക്ക് ചേർക്കുക നിങ്ങൾക്ക് കിട്ടുന്നത് 0 തന്നെയായിരിക്കും നമ്മൾ 0 ലേക്ക് ഏതെങ്കിലും സ്കെയിലർ കൊണ്ട് ഗുണിച്ചാൽ എലെമെന്റ് 0 ആയി തുടരും അതിനാൽ ഇത് ഒരു വെക്റ്റർ സ്പേസ് ആണ് കാരണം ഈ ക്ലോഷർ പ്രോപ്പർട്ടികളെല്ലാം തൃപ്തികരമാണ് മുഴുവൻ സെറ്റ് V യെയും നമുക്ക് വെക്റ്റർ സ്പേസ് V യുടെ വെക്റ്റർ സബ് സ്പേസ് എന്ന് വിളിക്കാം ഇവിടെ മറ്റൊരു ഉദാഹരണം ഈ സെറ്റ് എന്നത് ന്റെ സബ് സ്പേസ് ആണ് അടിസ്ഥാനപരമായി ഈ കംപോണന്റുകളെല്ലാം തുല്യമാകുമ്പോൾ നമ്മൾ എലെമെന്റുകൾ എടുത്തിട്ടുണ്ട് സ്വാഭാവികമായും ഈ എലെമെന്റുകൾ ൽ ഉൾപ്പെടുന്നു എന്നത് ഒരു വെക്റ്റർ സ്പേസ് ആണ് ഇത് ന്റെ ഒരു സബ് സ്പേസ് കൂടിയാണ് കാരണം വീണ്ടും വ്യക്തമാണ് ഈ സെറ്റിൽ നിന്ന് രണ്ട് എലെമെന്റുകൾ എടുക്കുകയാണെങ്കിൽ അതിനാൽ ഇവിടെ ഇത് U യുടേതാണ് കാരണം ഇവ മൂന്നും തുല്യമാണ് നമ്മൾ b എടുത്താൽ ഇതും ഈ U യിൽ നിന്നുള്ള ഒരു ഘടകം ഇപ്പോൾ ഈ ക്ലോഷർ പ്രോപ്പർട്ടികൾ ഞങ്ങൾ ഇവിടെ രണ്ടും ചേർക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെയുള്ള ഈ പുതിയ എലെമെന്റ്ൽ എല്ലാ ഘടകങ്ങളും വീണ്ടും തുല്യമാണ് ഇതേ സെറ്റ് U വിന്റേതായിരിക്കും അല്ലെങ്കിൽ നമ്മൾഇവിടെയുള്ള ഏതെങ്കിലും എലെമെന്റ്നെ കൊണ്ട് ഗുണിച്ചാൽ പുതിയ എലെമെന്റ് λa ആയിരിക്കും അതിനാൽ മൂന്ന് ഘടകങ്ങളും തുല്യമാണ് അതുകൊണ്ടാണ് ഇത് വീണ്ടും ഈ U യിൽ ഉൾപ്പെട്ടതാണ് അതിനാൽ ക്ലോഷർ പ്രോപ്പർട്ടികൾ തൃപ്തികരമാണ് അങ്ങനെ U എന്നത് ന്റെ സബ് സ്പേസ് ആകുന്നു ഉദാഹരണം 2 നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് രണ്ട് ഘടകങ്ങളും ഇവിടെ നെഗറ്റീവ് അല്ലാത്തവയാണ് x1≥0 x2≥0 ഈ V ഒരു വെക്റ്റർ സ്പേസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം ഉത്തരം ഇല്ല കാരണം നമ്മൾ ഇവിടെ ഒരു എലമെന്റ് എടുത്താൽ ക്ലോഷർ പ്രോപ്പർട്ടി പറയുന്നത് ടൈംസ് ആ എലമെന്റ് അവിടെ ഉണ്ടായിരിക്കണമെന്നാണ് ഒരു ഉദാഹരണത്തിന് 1 എടുത്താൽ V ൽ നിന്നുള്ള എന്ന എലമെന്റ് ലേക്ക് 1 ഗുണിച്ചാൽ നെഗറ്റീവ് അല്ലാത്ത എലെമെന്റുകൾ ഉള്ളതിനാൽ ചിഹ്നവുമായി ഗുണിച്ചാൽ അത് ആയി മാറും ഇത് ഈ സെറ്റ് V യിൽ ഉൾപ്പെടില്ല അതിനാൽ ഇവിടെ ഈ ക്ലോഷർ പ്രോപ്പർട്ടി തൃപ്തികരമല്ല ഇവിടെ നിങ്ങൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട് 1 നിങ്ങൾ ഇവിടെ ഏതെങ്കിലും എലെമെന്റ്നെ ഗുണിച്ചാൽ അത് V യിൽ ഉൾപ്പെടില്ല കാരണം V യിലെ ഒരു എലമെന്റ് ലേ രണ്ട് കോഡിനേറ്റകളും നെഗറ്റീവ് അല്ലാത്തവയാണ് എന്ന പ്രോപ്പർട്ടി ഉള്ളതിനാൽ അതിനാൽ ഇവിടെ ഒരു വെക്റ്റർ സ്പേസ് ഉണ്ടാകുന്നില്ലെന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഉദാഹരണമാണിത് ഇത് ഈ ന്റെ സബ് സെറ്റാണ് സബ്സ്പേസ്നുള്ള അവസാനത്തെ ഉദാഹരണം ഫോമിന്റെ വെക്റ്ററുകളാണ് ഇതിൽ s t എന്നിവയ്ക്ക് രേഖീയ സംഖ്യ എടുക്കാൻ കഴിയും അതിനാൽ ഈ വെക്റ്ററുകളുടെ ഗണം ൽ ഒരു സബ്സ്പേസ് ആയി മാറുന്നുണ്ടോ എന്നതാണ് ചോദ്യം ഈ വെക്റ്ററിൽ നാല് കംപോണന്റുകൾ ഇവിടെയുണ്ട് അതിനാൽ അവ ൽ ഉൾപ്പെടുന്നു ഇപ്പോൾ ഇത് ന്റെ സബ്സ്പേസ് ആണോ എന്നതാണ് ചോദ്യം ഇവിടെ ഇപ്പോൾ ഇത് t ഈ രീതിയിൽ പരിഗണിക്കുന്നത് എളുപ്പമാണ് ഈ പുതിയ വെക്റ്ററും ഇതേ സെറ്റിൽ ഉൾപ്പെടും അതിനാൽ രണ്ട് ക്ലോഷർ പ്രോപ്പർട്ടികളും സെറ്റിനായി സംതൃപ്തരാണ് അതിനാൽ ഇത് ന്റെ വെക്റ്റർ സ്പെയ്സും ഉണ്ടാക്കും അതിനാൽ ഇത് ന്റെ ഒരു വെക്റ്റർ സ്പെയ്സാണ് ഇനി വരാനിരിക്കുന്ന ലെക്ച്ചറുകളിലേക്ക് അവശേഷിപ്പിക്കുന്നു ഇത് ന്റെ ഒരു ചെറിയ സെറ്റാണെന്നും ഇത് എങ്ങനെ അളക്കാമെന്നും അല്ലെങ്കിൽ മറ്റ് മാനദണ്ഡങ്ങൾ എങ്ങനെയാണെന്നും ഇനിപ്പറയുന്ന ലെക്ച്ചറുകളിലും നമ്മൾ സംസാരിക്കും ഇപ്പോൾകൺക്ലൂഷൻഇലേക്ക് വരുന്നു വെക്റ്റർ സ്പേസ്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ ഈ അഡിറ്റീവ് ക്ലോഷറും സ്കാലർ ക്ലോഷറും ആണ് അതിനാൽ u v∈V u∈V ഇവ വെക്റ്റർ സ്പെയ്സുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികൾ ആയിരുന്നു കൂടാതെ വെക്റ്റർ സ്പെയ്സ് വെക്റ്റർ സബ്സ്പേസ് ഉൾപ്പെടെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾകണ്ടു ലെക്ച്ചറുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി